ഇത് ഇംപൾസ് റെസ്പോൺസ്ൻറെ രസകരമായ ഒരു കാര്യമായി ഇപ്പോൾ മാറുന്നു കൂടാതെ ഇതര പ്രാതിനിധ്യങ്ങളും സാധ്യമാണ് അതിനാൽ നമ്മൾ എന്താണ് ഉരുത്തിരിഞ്ഞത് നമ്മൾ ഒരു അടഞ്ഞ രൂപം പരിഹാരം ഉരുത്തിരിഞ്ഞു അതിലുപരിയായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കാണിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഈ ഫംഗ്ഷൻ ഇവിടെ പ്ലോട്ട് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയിരിക്കും അതിനാൽ നമുക്ക് അത് ഇവിടെ പ്ലോട്ട് ചെയ്യാം അതിനാൽ ഇത് എന്റെ x അക്ഷവും ഇത് x′ ആണ് ഇത് എന്റെ 0 ആണ് അപ്പോൾ x x′ ന് അത് എങ്ങനെയിരിക്കും രണ്ടും നേർരേഖകളാണോ ചരിവ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ വിദ്യാർത്ഥി നെഗറ്റീവ് നെഗറ്റീവ് കാരണം x′ l അതിനാൽ ഇത് ഒരു വരിയാണ് മറ്റേ പദം ഇതുപോലെ താഴേക്ക് പോകുന്നു വിദ്യാർത്ഥി 1 by l അതിനാൽ മറ്റൊരു പദമായ x′ x − l എന്നിവയും നെഗറ്റീവ് x l എന്നാൽ ഇത് വീണ്ടും നേർരേഖയാണ് നേർരേഖയുടെ ചരിവ് വിദ്യാർത്ഥി l1 എന്നാൽ ഇത് പോസിറ്റീവ് ആകാൻ പോകുന്നു അതിനാൽ ഇത് ഇവിടെ വർദ്ധിച്ചുവരുന്ന പ്രവർത്തനമായിരിക്കും എല്ലാവരും സമ്മതിക്കുന്നു അല്ലേ വിദ്യാർത്ഥി സാർ അതിനാൽ നിങ്ങൾക്ക് ഒരു പരിശോധന നടത്താം x x′ ഇടുക നിങ്ങൾക്ക് എന്ത് ലഭിക്കും നിങ്ങൾക്ക് ഇരുവശത്തും ഒരേ ബന്ധം ലഭിക്കുന്നു അത് ഒരു നെഗറ്റീവ് അളവാണ് അതിനാൽ നിങ്ങൾ ഇവിടെ നേടുന്നത് ഇതാണ് അതിനാൽ എനിക്ക് ഇതിൽ നിന്ന് തുടർച്ചയായി നോക്കുന്ന ഒരു പ്രവർത്തനം ലഭിച്ചു വിദ്യാർത്ഥി അതിനർത്ഥം G ന് പരിമിതമായ മൂല്യമുണ്ടെന്നും x x′ ന് സിങ്കുലാരിറ്റി ഇല്ല എന്നാണോ G യിൽ സിങ്കുലാരിറ്റി ഇല്ല എന്നാൽ G നോക്കുക G യുടെ ഇരുവശത്തും ഇത് തുടർച്ചയായാണ് എന്നാൽ ഇടതുവശത്തുള്ള G യുടെ ഡെറിവേറ്റീവും വലതുവശത്തുള്ള G യുടെ ഡെറിവേറ്റീവും നോക്കുക ഈ ബന്ധത്തിൽ നാം കണ്ട ഡെറിവേറ്റീവിലാണ് ഡിസ്കൺടിൻയുറ്റി ഉള്ളത് ഡെറിവേറ്റീവ് തുടർച്ചയായിരുന്നു അതിനാൽ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് തുടർച്ചയായി കാണാൻ കഴിയും നിങ്ങൾക്ക് പറയാമോ അതിനാൽ ഈ രീതിയിൽ അതിന് പരിമിതമായ ഊർജ്ജമുണ്ട് അനന്തമായ ഊർജ്ജത്തിലേക്ക് ഒഴുകുന്ന കിങ്കുകളൊന്നുമില്ല അതിനാൽ പരിമിതമായ ഊർജ്ജ സിഗ്നലുകളും സ്ക്വയർ ഇന്റഗ്രബിൾ ആണ് അപ്പോൾ സ്ക്വയർ ഇന്റഗ്രബിൾ സിഗ്നലുകളുടെ നല്ല പ്രോപ്പർട്ടി എന്താണ് സിഗ്നലുകളിലും സിസ്റ്റങ്ങളിലും നമ്മൾ ഇത് വീണ്ടും പഠിക്കുന്നു ഇത് ഒരു ക്ലോസ്ഡ് ഡൊമെയ്ൻ 0 മുതൽ l വരെ ആണ് അതിനാൽ ഈ G എഴുതാനുള്ള സാധ്യമായ ഒരു മാർഗം ഏതാണ് എനിക്ക് ഇത് ഫ്യൂറിയർ സീരീസ് ആയി എഴുതാമോ 0 മുതൽ l വരെയുള്ള ഡൊമെയ്നിൽ സിഗ്നലിന് പരിമിതമായ ഊർജ്ജമുണ്ട് അത് ഫ്യൂറിയർ സീരീസ് പ്രതിനിധീകരിക്കണം എന്താണ് ഫ്യൂറിയർ സീരീസ് വ്യത്യസ്ത ആവൃത്തിയിലുള്ള സൈനുകളുടെയും കോസൈനുകളുടെയും ലീനിയർ കോമ്പിനേഷൻ ഇപ്പോൾ ഈ കേസിൽ ഫ്രീക്വൻസി ഒരു സ്പേഷ്യൽ ഫ്രീക്വൻസിയാണ് സ്ട്രിംഗ് ഇതുപോലെയാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പോലെ പൂർണ്ണസംഖ്യ ഗുണിതങ്ങൾ അറിയാം അതിനാൽ ഇത് എന്റെ 0 ആണ് ഇത് എന്റെ l ആണ് അതിർത്തി വ്യവസ്ഥകൾ നോക്കി ഏത് നിബന്ധനകൾ 0 ആയിരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാമോ വിദ്യാർത്ഥി പൂജ്യമല്ലാത്തത് വിദ്യാർത്ഥി 0 കൃത്യമായും അവ സൈൻ പദങ്ങൾ മാത്രമായിരിക്കും കാരണം കോസൈൻ പദങ്ങൾക്ക് 0 l എന്നിവയിൽ പൂജ്യമല്ലാത്ത ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരിക്കും അതിനാൽ ഇത് 0 മുതൽ l വരെ യോജിച്ചുപോകുമെന്ന് എനിക്ക് നേരിട്ട് പറയാൻ കഴിയും ഇത് ഒരു സൈൻ ഫംഗ്ഷൻ ആയിരിക്കണം അതിനാൽ ഫൂറിയർ സീരീസ് ഫോം പോലെ എനിക്ക് ഇത് എഴുതാം ഇപ്പോൾ ഇടതുവശത്ത് എനിക്ക് x x′ എന്നിവയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് വലത് വശം x ന്റെ ഒരു ഫംഗ്ഷൻ മാത്രമാണെന്ന് തോന്നുന്നു അപ്പോൾ x′ ആശ്രിതത്വം എവിടെ നിന്ന് വരും വിദ്യാർത്ഥി ഗുണകങ്ങൾ ഗുണകങ്ങൾ ഗുണകങ്ങൾ x′ ആശ്രിതമായിരിക്കും അതിനാൽ നമുക്ക് ഇത് ഇതുപോലെ എഴുതാം anx′ ശരി ഇത് പ്രതിനിധീകരിക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ മാർഗമാണ് കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്വയർ ഇന്റഗ്രബിൾ സിഗ്നലാണ് ഇനി അടുത്ത ഘട്ടം ഇവ എന്താണെന്ന് കണ്ടെത്തുക എന്നതാണ് അതിനാൽ എനിക്ക് ഒരു ഡിഫറൻഷ്യൽ സമവാക്യം ഉണ്ട് അതിനാൽ എനിക്ക് എന്തുചെയ്യാൻ കഴിയും പകരം വയ്ക്കുക രണ്ടാമത്തെ ഡെറിവേറ്റീവ് എന്തായിരിക്കും സൈനിന്റെ ആദ്യത്തെ ഡെറിവേറ്റീവ് എനിക്ക് തരും വിദ്യാർത്ഥി കോസ് കോസ് ഓരോ നിബന്ധനകൾക്കും ഓരോന്നായി പ്രയോഗിക്കാൻ കഴിയുന്നതിനാൽ ഒരു ഡെറിവേറ്റീവ് കൂടി എടുത്താൽ എനിക്ക് ഒരു സൈൻ കിട്ടും അതിനാൽ 1 മുതൽ അനന്തത വരെയുള്ള n മായി ബന്ധപ്പെട്ട് ഇടത് വശം സംഗ്രഹമായി മാറും എനിക്ക് എന്താണ് ലഭിക്കേണ്ടത് വിദ്യാർത്ഥി n2 n1 ഫ്യൂറിയർ സീരീസ് നമ്മൾ പഠിച്ച എല്ലാ തന്ത്രങ്ങളും ഞാൻ എന്തുചെയ്യണമെന്ന് കണ്ടെത്താൻ ഇവിടെ ഉപയോഗിക്കാമോ വിദ്യാർത്ഥി x x′ x x′ എന്നെ സഹായിക്കില്ല വിദ്യാർത്ഥി നിങ്ങൾക്ക് ഗുണിക്കാം എന്ത് കൊണ്ട് ഗുണിക്കുക വിദ്യാർത്ഥി δ അല്ല വിദ്യാർത്ഥി ഡെൽറ്റ സൈൻ ഇല്ല ഫ്യൂറിയർ സീരീസ് അതെ അവൻ ഉത്തരം എഴുതിയിട്ടുണ്ട് വിദ്യാർത്ഥി sinnπ കൃത്യമായി പറഞ്ഞാൽ സൈനുകൾക്കിടയിൽ sine's ഓർത്തോഗണാലിറ്റി അതിനാൽ ഞാൻ sinmπxl sinnπxl എന്നിവ എടുക്കുകയാണെങ്കിൽ ഇവ രണ്ടും ഈ ഇടവേളയിൽ ഓർത്തോഗണൽ ഫംഗ്ഷനുകളാണ് അതിനാൽ ഇത് തുല്യമാകുമെന്ന് ഓർത്തോഗണാലിറ്റി പറയും അതിനാൽ നിങ്ങൾക്ക് mn ആണെങ്കിൽ l2 ഉം m⧧n ആണെങ്കിൽ 0 ഉം ലഭിക്കുമെന്ന കണക്കുകൂട്ടൽ ഞാൻ നടത്തി അതിനാൽ എനിക്ക് ഇരുവശങ്ങളെയും sinmπxl കൊണ്ട് ഗുണിക്കുകയും തുടർന്ന് 0 മുതൽ l വരെ സംയോജിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ വലതുഭാഗം എന്തായിത്തീരും അതിനാൽ നമുക്ക് ഇടതുവശത്ത് നിന്ന് ആരംഭിക്കാം ഇടത് വശം എന്താണ് സംഭവിക്കുന്നത് ഏത് പദം നിലനിൽക്കും ഞാൻ ഈ സമവാക്യത്തിന്റെ ഇരുവശത്തും sinmπxl കൊണ്ട് ഗുണിക്കുകയും 0 മുതൽ l വരെ സംയോജിപ്പിക്കുകയും ചെയ്യുന്നു ഏത് പദമാണ് നിലനിൽക്കുന്നത് m am അപ്പോൾ ഇടത് വശം − m2π2l2amx′ × 12 ആയിരിക്കും വലതുഭാഗം എനിക്ക് എന്ത് നൽകും sinmπ അല്ലെങ്കിൽ വിദ്യാർത്ഥി x′ x′l അതിനാൽ എനിക്ക് എന്റെ am ലഭിച്ചു എനിക്ക് എന്റെ സ്ഥാനം ലഭിച്ചു പിന്നെ ഞാൻ എന്തുചെയ്യും ഞാൻ അത് ഈ ബന്ധത്തിലേക്ക് തിരികെ ചേർക്കുന്നു ഈ സമവാക്യത്തിൽ അജ്ഞാതമായ ഒരേയൊരു കാര്യം ഞാൻ ഇപ്പോൾ വിലയിരുത്തിയ ans മാത്രമാണ് അപ്പോൾ എനിക്ക് എന്ത് ലഭിക്കും ഇതാണ് അന്തിമ ബന്ധം ∞ അതിനാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും n1 l ൽ ഒന്ന് റദ്ദാക്കിയിട്ടുണ്ടോ അതുകൊണ്ടാണ് ഇത് 2 ആയതിനാൽ രണ്ട് നിബന്ധനകളും ഇവിടെ അവസാനിച്ചു അതിനാൽ ഇപ്പോൾ ഞാൻ എന്തിനാണ് ഈ ഫോം തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾ ചോദിച്ചിരിക്കാം ഇത് ഇവിടെയുള്ള എന്റെ മുമ്പത്തെ രൂപത്തേക്കാൾ വളരെ സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു ഇതിലും വളരെ ലളിതമായി തോന്നിയില്ല അതിനാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഈ ചർച്ചയോടെ നമ്മൾ ഈ മൊഡ്യൂൾ ഇവിടെ അവസാനിപ്പിക്കും ഏത് ഫോം തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതിനാൽ ഇതാണ് സീരീസ് ഫോം അതൊരു അടഞ്ഞ രൂപമായിരുന്നു ഏത് രൂപമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വിദ്യാർത്ഥി x ന്റെ ഏത് രൂപമാണ് കൃത്യമായി പറഞ്ഞാൽ അന്തിമ പരിഹാരം ഇവിടെ നൽകിയിരിക്കുന്നത് G F എന്നിവയുടെ ഇന്റഗ്രൽ ആണെന്ന് ഓർക്കുക ഇപ്പോൾ F ന്റെ രൂപത്തെ ആശ്രയിച്ച് ഒന്നോ അല്ലെങ്കിൽ മറ്റൊന്നോ വിലയിരുത്താൻ എളുപ്പമായിരിക്കും ഉദാഹരണത്തിന് sinkπxl എന്ന രൂപത്തിലുള്ള മൂലധനം എഫ് ആണെങ്കിൽ ആ സംയോജനം വളരെ ലളിതമാണ് അത് ഓർത്തോഗണാലിറ്റി ആണെന്നും ഈ ഏകീകരണം ലളിതമാകുമെന്നും എല്ലാ നിബന്ധനകളും ഇല്ലാതാകും എനിക്ക് ഒരു പദത്തിൽ അവശേഷിക്കുന്നു കൃത്യമായ കണക്കുകൂട്ടൽ നേരെമറിച്ച് ഞാൻ മുമ്പത്തെ ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ x ന്റെ സംയോജനം sin x കൊണ്ട് ഗുണിക്കുകയും എല്ലാ സംയോജനവും നടത്തുകയും വേണം രണ്ടും എനിക്ക് ഒരേ ഉത്തരം നൽകും കാരണം അവ ഒരേ പ്രവർത്തനമാണ് പക്ഷേ ഈ അവസാന സ്ലൈഡിൽ നിന്നുള്ള ഒരു തരം ടേക്ക് ഹോം സന്ദേശം ഗ്രീനിന്റെ ഫംഗ്ഷനുകൾക്ക് Green's functions ഒന്നിലധികം പ്രാതിനിധ്യങ്ങളോ അടഞ്ഞ രൂപമോ സീരീസ് രൂപമോ ഉണ്ടാകാം എന്നതാണ് നിലവിലുള്ള പ്രശ്നത്തെ ആശ്രയിച്ച് നിങ്ങൾ ആ ഫോം തിരഞ്ഞെടുക്കണം നിങ്ങൾ കണക്കുകൂട്ടലുകൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അടിസ്ഥാന ആശയം അതിനാൽ അത് നേടാൻ നമ്മളെ സഹായിക്കുന്നതെന്തും ശരി കാരണം ഈ സ്ട്രിംഗ് x കോർഡിനേറ്റുകളിൽ മാത്രമുള്ളതാണ് അതിനാൽ ഇത് ചില ഗുണകങ്ങളുള്ള x പദത്തിൽ മാത്രം ഫ്യൂറിയർ സീരീസ് ആയിരിക്കണം അത് x നെ ആശ്രയിക്കരുത് അതിനാൽ ശേഷിക്കുന്നത് x′ മാത്രമാണ് വിദ്യാർത്ഥി അതിനാൽ ഈ സംഗ്രഹത്തിൽ n 1 മുതൽ ഇൻഫിനിറ്റി വരെ ആണ് അതെ ശരിയാണ് അതിനാൽ ഇത് അനന്തമായിരിക്കണം ഇത് ചൂണ്ടിക്കാണിച്ചതിന് നന്ദി സംഗ്രഹം കഴിഞ്ഞു ∞ ∑ ഇവിടെ i ഇല്ല n1 അതെ ഇപ്പോൾ ആ പരമ്പര പരിഹാരം കൂടിച്ചേരുന്നുണ്ടോ ഇത് അതിന് തുല്യമാണ് പക്ഷേ അത് മറ്റൊന്നിലേക്ക് ഒത്തുചേരുന്നു വിദ്യാർത്ഥി അല്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ എന്തു ചെയ്യും അതിന് ഒരു മൂല്യവുമില്ല എന്നതിനാൽ അനന്തമായ ശ്രേണിയുടെ ആകെത്തുകയാണ് അത് ശരിയല്ലേ വിദ്യാർത്ഥി ഫ്യൂറിയർ സീരീസ് അതിനാൽ ഫ്യൂറിയർ സീരീസ് നിങ്ങൾ പരിമിതമായ പദങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ അതിന് തുല്യമല്ല എന്നാൽ നിങ്ങൾക്ക് ഈ നിബന്ധനകൾ കാണാൻ കഴിയും അവ ക്ഷയിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ ഉയരത്തിലേക്കും ഉയരത്തിലേക്കും പോകുമ്പോൾ 1n2 ഉണ്ട് അവ ക്ഷയിക്കാൻ തുടങ്ങും ഗ്രീൻസ് ഫംഗ്ഷനുകളെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ തുടരും നമ്മൾ 1 ഡി ഗ്രീൻസ് ഫങ്ഷനുകൾ Green's functions പരിശോധിച്ചു അതിനാൽ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് 2 ഡി ഗ്രീനിന്റെ ഫംഗ്ഷനുകളിലേക്ക് Green's function പോകുന്നതിന് മുമ്പ് ഗ്രീനിന്റെ ഫംഗ്ഷനുകൾ Green's funciton പൊതുവായി അനുസരിക്കുന്ന കുറച്ച് പൊതു സവിശേഷതകൾ സംഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അതിനാൽ ഇന്നലെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഉണ്ടായിരുന്ന ഗ്രീൻ ഫംഗ്ഷൻ ഇതാണ് അതിനാൽ നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്കറിയാമായിരുന്നു ഇത് എന്റെ x പ്രൈം ആണെന്ന് തോന്നുന്നു അതിനാൽ നിങ്ങൾ നിരീക്ഷിക്കുന്ന ചില പൊതുവായ ഗുണങ്ങളുണ്ട് അതിനാൽ ആദ്യത്തേത് ഗ്രീനിന്റെ ഫംഗ്ഷൻ ആണ് നമ്മൾ ഗ്രീൻ ഫംഗ്ഷന്റെ Green's function ഗുണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ ഞാൻ ഏകതാനമായ ഡിഫറൻഷ്യൽ സമവാക്യം നോക്കുകയാണെങ്കിൽ ഏകതാനമായ ഡിഫറൻഷ്യൽ സമവാക്യം അർത്ഥമാക്കുന്നത് വലതുഭാഗം എന്താണ് വിദ്യാർത്ഥി 0 0 അതിനാൽ ഈ ഗ്രീനിന്റെ ഫംഗ്ഷൻ Green's funciton അത് തൃപ്തിപ്പെടുത്തുന്നു അടിസ്ഥാനപരമായി നമ്മൾ x x′ എന്ന പോയിന്റിനെ അവഗണിക്കുകയും നമ്മൾ ഇത് ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്തുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ ഉരുത്തിരിഞ്ഞത് എന്ന് നമുക്ക് പറയാമോ അതിനാൽ ഗ്രീൻസ് ഫംഗ്ഷന്റെ ഏകതാനമായ ഡിഫറൻഷ്യൽ സമവാക്യം തൃപ്തികരമാണ് പൊതുവേ നിങ്ങൾ അത് എങ്ങനെ നിർമ്മിക്കും ഫംഗ്ഷന്റെ രൂപം നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയും ഇത് x x′ മായി ബന്ധപ്പെട്ട സമമിതി ഗുണങ്ങളാണ് ഞാൻ ഇതിൽ എല്ലായിടത്തും x x′ എന്നിവ പരസ്പരം മാറ്റുകയാണെങ്കിൽ എനിക്ക് അതേ ഫംഗ്ഷൻ ലഭിക്കുമോ കാരണം കേസ് 1 കേസ് 2 ആയി മാറും കേസ് 2 കേസ് 1 ആയി മാറും എനിക്ക് അത് തന്നെ ലഭിക്കും അതിനാൽ ഇത് x x′ എന്നിവയുമായി ബന്ധപ്പെട്ട് സമമിതിയാണ് നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം ഈ പ്രത്യേക സാഹചര്യത്തിൽ അത് തൃപ്തികരമാണ് നമുക്ക് എന്ത് തരത്തിലുള്ള അതിർത്തി വ്യവസ്ഥകളാണ് ഉള്ളത് അതിർത്തി വ്യവസ്ഥകളും ചില അർത്ഥത്തിൽ ഏകതാനമായിരുന്നു സ്ട്രിംഗ് രണ്ട് അറ്റത്തും ഘടിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതിനാൽ ഫീൽഡ് ഡിസ്പ്ലേസ്മെന്റ് രണ്ട് അറ്റത്തും 0 ആയിരിക്കുന്ന ഒരു ഏകീകൃത അതിർത്തി അവസ്ഥ പോലെയാണ് ഇത് അതിനാൽ ഇത് ഏകതാനമായ അതിർത്തി വ്യവസ്ഥകളെ തൃപ്തിപ്പെടുത്തുന്നുവെന്ന് നമുക്ക് പറയാം അതിനാൽ മൂന്ന് വ്യവസ്ഥകൾ മറ്റൊരു വ്യവസ്ഥ നമുക്ക് നാല് വേരിയബിളുകൾ ഉണ്ടായിരുന്നു നാല് വേരിയബിളുകളും ഇല്ലാതാക്കാൻ നമ്മൾ ഉപയോഗിച്ച നാലാമത്തെ തന്ത്രം ഇതാണ് വിദ്യാർത്ഥി കണ്ടിന്യൂയിറ്റി കണ്ടിന്യൂയിറ്റി അല്ലേ അതിനാൽ ഇത് തുടർച്ചയായതും x x′ ആണെന്നും നമുക്ക് പറയാം ഇത് ഡിഫറൻഷ്യബിൾ ആണോ ഡിഫറൻഷ്യൽ സമവാക്യവും x ഒഴികെയുള്ള എല്ലാ പോയിന്റുകളും തൃപ്തിപ്പെടുത്തുന്നു അതാണ് ആദ്യത്തെ പോയിന്റ് അത് എല്ലായിടത്തും ഇല്ല സിംഗുലാരിറ്റിയുടെ പോയിന്റിൽ അൽപ്പം പ്രശ്നമുണ്ട് വലതുഭാഗം അനന്തമാണെങ്കിൽ ഇടത് വശത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് പറയാൻ പ്രയാസമാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരു ഗ്രീൻ ഫംഗ്ഷൻ നിർമ്മിക്കുകയും അതിൽ ഒരു ഏകത്വമുള്ളതും അത് ബാക്കിയുള്ള പ്രോപ്പർട്ടികൾ അനുസരിക്കുകയും ചെയ്യുമെന്ന് അടുത്ത ഉദാഹരണത്തിൽ നമ്മൾ കാണും അത് പ്രശ്നത്തെ ആശ്രയിച്ചിരിക്കും ഇത് മറ്റൊരു ഭാഗമാണ് ഇത് തുടർച്ചയായതാണ് പക്ഷേ വ്യത്യസ്തമല്ല അതിനാൽ നമുക്ക് പറയാം ഉദാഹരണത്തിന് G′ ന് ഒരെണ്ണം ഉണ്ട് ഗ്രീൻ ഫംഗ്ഷന്റെ Green's funciton രൂപവും നമ്മൾ അത് ഉരുത്തിരിഞ്ഞതും നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ലളിതമായ നിരീക്ഷണങ്ങൾ മാത്രമാണിവ എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് നിങ്ങൾ ഇതുവരെ ചെയ്തതിന്റെ ഒരു അവലോകനം അല്ലെങ്കിൽ സംഗ്രഹം പോലെയാണ് അതിനാൽ ഇത് ഒരു ഡൈമൻഷണൽ ഗ്രീൻ ഫംഗ്ഷന്റെ one dimensional Green's function ലളിതമായ കേസായിരുന്നു ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥിരാംഗങ്ങളെ കണ്ടെത്തുന്നതിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല